കോണിക് സെക്ഷൻസ് പരിശീലനം - I എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഞാൻ ഐഐടി ഖരഗ്പൂരിലെ രാജരാം ലക്കരാജു കോണിക് വിഭാഗങ്ങളിൽ നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 കവർ ചെയ്യുകയാണ് നമ്മൾ ലെക്ചർ നമ്പർ 9 ലാണ് നില്കുന്നത് മൊഡ്യൂൾ 2 കോണിക് വിഭാഗങ്ങളിൽ ജ്യാമിതീയ നിർമ്മാണത്തെക്കുറിച്ചുള്ള ചില തത്ത്വങ്ങൾ നമ്മൾ ഇതിനകം പഠിച്ചുകഴിഞ്ഞു ഉദാഹരണത്തിന് ഒരു രേഖ എങ്ങനെ വിഭജിക്കാം ഒരു ആർക്ക് എങ്ങനെ വിഭജിക്കാം ലംബ രേഖകൾ എങ്ങനെ വരയ്ക്കാം ഒരു രേഖ എങ്ങനെ വീതിക്കാം ഒരു കോണിനെ എങ്ങനെ വിഭജിക്കാം എങ്ങനെ ട്രിസെക്റ്റ് ചെയ്യാം വൃത്തങ്ങൾ എങ്ങനെ വിഭജിക്കാം എന്നും മൂന്ന് പോയിന്റുകളിലൂടെ വൃത്തം എങ്ങനെ വരക്കാം എന്നും ഇന്നത്തെ പ്രഭാഷണം 9 ൽ ഒരു വൃത്തത്തിലേക്കു നോർമൽ ഉം ടാൻജെന്റും എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ വിശദീകരിക്കും ഒരു ബാഹ്യ പോയിന്റിൽ നിന്ന് ഒരു വൃത്തത്തിലേക്കു ഒരു ടാൻജെന്റ് എങ്ങനെ വരയ്ക്കാം എന്നത് രണ്ടാമത് നോക്കും അവസാനമായി ഒരു നിശ്ചിത വശമുള്ള റെഗുലർ പോളിഗോൺ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിക്കും നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഒരു വൃത്തം ഉണ്ടെങ്കിൽ ഒരു നിശ്ചിത പോയിന്റിൽ നിന്ന് നമ്മൾ എങ്ങനെ ആ വൃത്തത്തിലേക്കു നോർമൽ ഉം ടാൻജെന്റും എങ്ങനെ വരയ്ക്കാമെന്നതാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് മൂന്ന് പോയിന്റുകൾ മാത്രമേ ഉണ്ടാകൂ അതിനാൽ മൂന്ന് പോയിന്റുകൾ ഉപയോഗിച്ച് ഒന്നാമതായി നമ്മൾ ഒരു വൃത്തം നിർമ്മിക്കണം തുടർന്ന് അതിന്റെ കേന്ദ്രത്തെയും പിന്നീട് ആരത്തെയും തിരിച്ചറിയാൻ നമുക്കാകും ആരം പൂർത്തിയായാൽ നമ്മൾ പോയിന്റ് തിരഞ്ഞെടുക്കും ആരം തിരിച്ചറിഞ്ഞാൽ നമുക്ക് നോർമൽ ഉം ടാൻജെന്റും വരയ്ക്കാൻ കഴിയും നമുക്ക് അത് പടിപടിയായി ചെയ്യാം ഇവിടെ നമുക്ക് മൂന്ന് പോയിന്റുകൾ എ പി ബി A P B ഉണ്ട് ഒന്നാമതായി എ പി ബി A P B പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു വൃത്തം വരയ്ക്കണം തുടർന്ന് വൃത്തത്തിന്റെ സെന്റർ തിരിച്ചറിയണം അതിനാൽ നമുക്ക് മൂന്ന് പോയിന്റുകൾ എ പി ബി A P B എന്നിവ തിരിച്ചറിയാം നമുക്ക് അവയെ എ പി ബി A P B എന്ന് നാമകരണം ചെയ്യാം ഈ മൂന്ന് പോയിന്റുകളും നമുക്കുണ്ട് ഒന്നാമതായി ഈ എപി പിബി എന്നിവയിലൂടെ നമ്മൾ ഒരു സർക്കിൾ നിർമ്മിക്കണം ഇപ്പോൾ സെന്റർ എ സെന്റർ പി എന്നിവയിൽ ആരംഭിച്ച് പി യ്ക്ക് ലംബമായ ബൈസെക്ടറുകൾ നിർമ്മിക്കാം അതുപോലെ പിബി യിൽ നിന്ന് അടുത്ത ലംബ ബൈസെക്ടർ നിർമ്മിക്കാം അതിനാൽ ഈ വിഭജന പോയിന്റുകൾ തിരിച്ചറിയുക ഇവ പി B ക്കുള്ള ലംബ ബൈസെക്ടർ രേഖകളാണ് അതിനാൽ ഇന്റർസെക്ഷൻ പോയിന്റ് O ആണ് അതിലൂടെ നമുക്ക് ഒരു വൃത്തം നിർമ്മിക്കണം എ പി ബി A P B പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു വൃത്തം നമുക്ക് ലഭിക്കും ഒപി ആർ തരത്തിലുള്ള പോയിന്റുകൾക്കായി ലംബമായ ഒരു ബൈസെക്ടർ നിർമ്മിക്കാൻ നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഇതിനെ നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നു ടാൻജെന്റ് എല്ലായ്പ്പോഴും ഈ നോർമലിനു ലംബമായിരിക്കും അതിനാൽ ആ ആവശ്യത്തിനായി നമ്മൾ ചെയ്യുന്നത് Q പോയിന്റിൽ നിന്ന് ഏത് നീളവും എടുക്കും എന്നതാണ് വീണ്ടും നമ്മൾ മറ്റൊരു പോയിന്റ് തിരിച്ചറിയുന്നു ഈ രണ്ട് പോയിന്റുകളിൽ നിന്നും നമുക്ക് ഈ പോയിന്റുകളെ Q ഈ പോയിന്റിനെ R എന്ന് വിളിക്കാം ഈ പോയിന്റിനെ Q എന്ന് വിളിക്കാം അതിനാൽ R P Q ലംബമായ ബൈസെക്ടർ എന്തുതന്നെയായാലും അതിനെ ആ സർക്കിളിലേക്കുള്ള ഒരു ടാൻജെന്റായി നമ്മൾ വിളിക്കും വീണ്ടും പകുതിയിൽ കൂടുതൽ ദൂരവും സെന്റർ R ഉം ഉപയോഗിച്ച് സമാനമായ രീതിയിൽ നിർമ്മിക്കേണ്ടതുണ്ട് അതേ ആരം ഉപയോഗിച്ച് പി യിലൂടെ കടന്നുപോകുന്ന ഈ പോയിന്റുകൾ ചേർക്കുക അതിനാൽ ഇപ്പോൾ നമുക്ക് ടാൻജെന്റ് രേഖയും നോർമൽ രേഖയും തിരിച്ചറിയാം ഈ ദിശകളിൽ ടാൻജെന്റും നോർമലും നിർമ്മിക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു സെറ്റ് സ്ക്വയറുകളോ മിനി ഡ്രാഫ്റ്ററോ ഉണ്ടെങ്കിൽ പോയിന്റ് പി ലൂടെ കടന്നുപോകുന്നവയിലേക്ക് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നോർമൽ വിന്യസിക്കാൻ കഴിയും നമുക്ക് ആ വൃത്തത്തിലൂടെ പോകുന്ന ടാൻജെന്റും നോർമലും നൽകുന്നു നടപടിക്രമം നോക്കാം ഒന്നാമതായി എ പി ബി A P B പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു വൃത്തം നമ്മൾ നിർമ്മിക്കണം അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ O മുതൽ P വരെ ഒരു രേഖ നിർമ്മിക്കുകയും ആ O P രേഖ R ലേക്ക് നീട്ടുകയും വേണം O P R എന്ന രേഖ O ലേക്കും R ലേക്കും നീട്ടിയാൽ അതിനെ ആ സർക്കിളിന്റെ നോർമൽ എന്ന് നമ്മൾ പി യിലൂടെ കടന്നുപോകുന്ന സർക്കിളിലേക്ക് ഒരു ടാൻജെന്റ് നിർമിക്കാൻ നമ്മൾ ചെയ്യുന്നത് P എന്നതിന് തുല്യമായ അകലം തിരിച്ചറിയുക എന്നതാണ് R Q പോയിന്റുകൾ നമ്മൾ ആദ്യം തിരിച്ചറിയും Q R എന്നിവ കേന്ദ്രങ്ങളായി ഉപയോഗിച്ച് പി യിലൂടെ കടന്നുപോകുന്ന ഒരു ലംബ ബൈസെക്ടർ കൂടി നിർമ്മിക്കുന്നു അതിനാൽ ആ പോയിന്റ് തിരിച്ചറിയാൻ നമ്മൾക്കാകും ഇതിനെ എസ് എന്ന് വിളിക്കാം അതിനാൽ എസ് പി എം S P M എനിക്ക് ടാൻജെന്റ് നൽകുന്നു Q P R എനിക്ക് പോയിന്റ് പി യിലൂടെ കടന്നുപോകുന്ന നോർമൽ നൽകുന്നു സർക്കിളിലെ മറ്റേതൊരു പോയിന്റിൽ നിന്നും സമാനമായി നമുക്ക് വരക്കാം രണ്ടാമത്തെ പ്രശ്നം നോക്കാം ഒരു ബാഹ്യ പോയിന്റിൽ നിന്ന് ഒരു വൃത്തത്തിലേക്ക് ഒരു ടാൻജെന്റ് എങ്ങനെ വരയ്ക്കാം അതിനാൽ ഇവിടെ നമുക്ക് കേന്ദ്രം O ഉള്ള ഒരു സർക്കിൾ ഉണ്ട് അത് ഒരു നിശ്ചിത ദൂരത്തോടുകൂടി J K പോയിന്റുകളിലൂടെ കടന്നുപോകുന്നു ഒരു ബാഹ്യ പോയിന്റ് പി ഉണ്ട് പോയിന്റ് പി മുതൽ ജെ അല്ലെങ്കിൽ കെ യിലൂടെ കടന്നുപോകുന്ന ഒരു ടാൻജെന്റ് വരയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് വൃത്തത്തിന്റെ കേന്ദ്രം O യും എക്സ്റ്റീരിയർ പോയിന്റ് P യും ചേർക്കുക എന്നതാണ് അതിനാൽ ആ സർക്കിൾ നൽകപ്പെടും കൂടാതെ നമ്മൾ അതിനെ O മുതൽ P വരെ നീട്ടാൻ പോകുന്നു ഒപി യിലേക്ക് ലംബമായ ഒരു ബൈസെക്ടർ വരയ്ക്കുക അതിനാൽ OP വരിയിൽ O യുമായി മധ്യഭാഗത്തും P മധ്യഭാഗത്ത് ഒരു ലംബ ബൈസെക്ടർ വരയ്ക്കുന്നതിലും തുല്യ അകലം ഉപയോഗിക്കുക ഈ ലംബ ബൈസെക്ടർ എം പോയിന്റിൽ ഒപി ലൈൻ മുറിക്കുന്നു എം പോയിന്റ് തിരിച്ചറിഞ്ഞാൽ എം പോയിന്റ് കേന്ദ്രമായി ഉപയോഗിക്കുക O മുതൽ എം വരെയുള്ള ദൂരം ആ നീളത്തെ കേന്ദ്രമായി തിരഞ്ഞെടുക്കുക ജെ പോയിന്റിൽ വൃത്തം മുറിക്കുക ഇപ്പോൾ നമുക്ക് ആ ജെ പോയിന്റ് ഉണ്ട് സർക്കിളിൽ ഒരു ടാൻജെന്റ് ലൈൻ നിർമ്മിക്കുന്നതിന് പി പോയിന്റും ജെ പോയിന്റും ബന്ധിപ്പിക്കുക അതുപോലെ ഒരാൾക്ക് മറ്റൊരു ടാൻജെന്റായി പികെ യും നിർമ്മിക്കാൻ കഴിയും നമുക്ക് ഒരു ഉദാഹരണത്തിൽ നിന്ന് ആരംഭിക്കാം നമുക്ക് സർക്കിളിന്റെ ആരം 30 മില്ലീമീറ്ററായി തിരഞ്ഞെടുക്കാം സർക്കിൾ സെന്റർ O ൽ നിന്ന് 90 മില്ലീമീറ്റർ അകലെയാണ് ടാൻജെന്റ് നിർമ്മിക്കുന്ന പോയിന്റ് പി ഉള്ളത് അതിനാൽ ആദ്യം നമുക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ സ്കെയിൽ എടുക്കാം നമുക്ക് ആ പോയിന്റിനെ O എന്ന് വിളിക്കാം പോയിന്റ് P സെന്റർ O യിൽ നിന്ന് 90 മില്ലീമീറ്റർ അകലെയാണ് അതിനാൽ നമുക്ക് ഒരു സ്കെയിൽ ഉപയോഗിച്ച് 90 മില്ലീമീറ്റർ മാർക്ക് ചെയ്യാം നമുക്ക് ഈ പോയിന്റിനെ പി എന്ന് വിളിക്കാം വൃത്തം ദൂരം 30 മില്ലീമീറ്ററാണ് അതിനാൽ ഒരു വൃത്തം വരയ്ക്കുക ജെ പോയിന്റ് കൃത്യമായി നിർമ്മിക്കാൻ ജെ എവിടെയായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല നമ്മൾ ഒരു നിർമാണരേഖ ഉപയോഗിച്ച് O P പോയിന്റുകളിൽ ചേർക്കുന്നു അങ്ങനെ ഒ ലഭിക്കുന്നു ഇപ്പോൾ പോയിന്റ് ഒപി യ്ക്കായി നമ്മൾ ഒരു ലംബ ബൈസെക്ടർ നിർമ്മിക്കണം അതിനായി നമ്മൾ പി കേന്ദ്രമായി തിരഞ്ഞെടുക്കുകയും O നും P നും ഇടയിലുള്ള ദൂരത്തിന്റെ പകുതിയിലധികം ദൂരം ആരം ആയി ഉപയോഗിച്ച് ആർക്കുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു ഈ പോയിന്റുകൾ തിരിച്ചറിയുക തുടർന്ന് അവ തമ്മിൽ ചേർക്കുക ഇപ്പോൾ എം പോയിന്റിൽ ഒപി ലൈൻ വിഭജിക്കപ്പെടും പോയിന്റ് എം തിരിച്ചറിഞ്ഞാൽ പോയിന്റ് ജെ കണ്ടെത്തുന്നതിന് എം കേന്ദ്രമായും എംഒ ആരമായും ഉപയോഗിക്കേണ്ടതുണ്ട് അതിനായി നമ്മൾ പോയിന്റ് എം തിരഞ്ഞെടുത്ത് OM ആരം എടുത്ത് ഇരുവശവും പോയിന്റ് തിരിച്ചറിയുക നമുക്ക് ഈ പോയിന്റിനെ ജെ എന്നും ഈ പോയിന്റിനെ കെ എന്നും വിളിക്കാം ഇപ്പോൾ ജെ പി JP പോയിന്ററുകൾ ചേർക്കുക അതിനാൽ പോയിന്റ് ജെ പി J P എന്നിവയിലൂടെ കടന്നുപോകുന്ന ആ സർക്കിളിലൂടെയുള്ള ടാൻജെന്റാണിത് അതുപോലെ കെ പി K P എന്നിവ ചേർക്കുക ഇത് ഒരു രേഖയിലൂടെ ബന്ധിപ്പിക്കുക വൃത്തങ്ങളിലേക്കു ടാൻജെന്റുകൾ നിർമ്മിക്കുന്ന രീതിയാണിത് നമുക്ക് ഒരു റെഗുലർ പോളിഗൺ നിർമ്മിക്കാം ഉദാഹരണത്തിന് സൈഡ് എസിയിൽ നിന്ന് നിർമ്മിച്ച ഒരു അഷ്ടഭുജാകൃതിയിലുള്ള പോളിഗോൺ അഥവാ ഒക്ടഗണൽ പോളിഗോൺ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എസി യുടെ ദൈർഘ്യം നമുക്ക് നൽകിയിട്ടുണ്ട് അതേ എസി ദൈർഘ്യം മറ്റ് വശങ്ങളിൽ ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് നിര്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നമുക്ക് നോക്കാം അതിനാൽ ലെങ്ത് എസി സൈഡ് ലെങ്ത് ആയി നൽകിയിരിക്കുന്നു ഒന്നാമതായി എ യിലൂടെ കടന്നുപോകുന്ന ഒരു അർദ്ധവൃത്തം നിർമ്മിക്കണം ആരം എസി യായും സെന്റർ സി ആയി എടുക്കാം അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം തിരഞ്ഞെടുക്കാം എസി സൈഡ് ലെങ്ത് ആയി ഉപയോഗിച്ച് നമ്മൾ ഒരു അഷ്ടഭുജം നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ ഇതിന് 8 വശങ്ങളുണ്ടായിരിക്കണം നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന എസി യുടെ സൈഡ് നീളം 20 മില്ലീമീറ്റർ ആണ് ആദ്യ ഘട്ടം എന്നത് 20 മില്ലീമീറ്റർ ഉള്ള രേഖ വരയ്ക്കുക എന്നതാണ് അതിനാൽ നമ്മൾ ബേസ് ലൈൻ എസി യിൽ നിന്ന് നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ ആദ്യം പോയിന്റ് എ തിരിച്ചറിഞ്ഞ് വശത്തിന്റെ നീളം 20 മില്ലീമീറ്റർ എന്ന് അടയാളപ്പെടുത്തി സി എന്ന് പേരിടുക അത് ചെയ്തുകഴിഞ്ഞാൽ സി സെന്റർ ആയും എസി യെ ആരമായും ഉപയോഗിച്ച് നമ്മൾ ഒരു അർദ്ധവൃത്തം വരയ്ക്കണം അതിനാൽ നമുക്ക് പോയിന്റ് ബി ലഭിക്കും നിർമ്മാണ വരികളിലൂടെ ഇത് നീട്ടാം സാധാരണയായി നമ്മൾ വളരെ നേർത്ത ഡാഷ് ലൈനുകൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഒരു അർദ്ധവൃത്തം നിർമ്മിക്കുന്നു ഇപ്പോൾ അർദ്ധവൃത്തത്തിൽ അവശേഷിക്കുന്ന 1 2 3 7 പോയിന്റുകൾ കണ്ടെത്തേണ്ടതുണ്ട് കാരണം 8 തുല്യ വശങ്ങളുള്ള ഒരു അഷ്ടഭുജം നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ഈ അർദ്ധവൃത്തങ്ങളെ 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ പോകുന്നു ഈ 180° നെ 8 ഭാഗങ്ങളായി വിഭജിക്കാൻ നമ്മുടെ പ്രൊട്ടക്റ്റർ ഉപയോഗിക്കാം അതിനാൽ തത്ഫലമായുണ്ടാകുന്ന കോണിനെ നമുക്ക് ഇങ്ങനെ കണ്ടെത്താനാകും അല്ലാത്തപക്ഷം ഈ 180° കോണിനെ വിഭജിച്ചും ട്രൈസെക്ട് ചെയ്തും നമുക്ക് മുന്നോട്ടു പോകേണ്ടി വരും അതിനാൽ ആദ്യം നമ്മൾ ഇത് വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കണം ആദ്യ ഭാഗത്തിന് 90° ഉണ്ടാകും അതിനർത്ഥം നമുക്ക് നാല് സോണുകൾ നിർമ്മിക്കാൻ കഴിയും എന്നാണ് അതിനാൽ നാല് പോയിന്റുകൾ കണ്ടെത്തുക അടുത്തതായി അതിനെ മൂന്ന് തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം അതിനാൽ ആദ്യ പടി 1 2 3 4 ഭാഗങ്ങൾ നിർമിക്കുക എന്നതാണ് ഈ 1 2 3 ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന് നമ്മൾ ഈ 90° നെ 4 ഭാഗങ്ങളായി വിഭജിക്കും അതുപോലെ കോണിനെ പകുതിയായി കണക്കാക്കുന്നതിന് പകരം ഈ കോണിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുക അതിനാൽ അതിന്റെ പകുതി ദൂരം ആരമായി തിരഞ്ഞെടുത്ത് ഒരു ആർക്ക് ഉണ്ടാക്കുക അതുപോലെ ഇവിടെ മാത്രം വിഭജിക്കാൻ പോകുന്ന മറ്റൊരു പോയിന്റ് നിർമ്മിച്ച് ഈ പോയിന്റുകളിൽ ചേർക്കുക അതിനാൽ 3 പോയിന്റ് ഉം തിരിച്ചറിയാൻ നമുക്കാകും ചിലപ്പോൾ നമ്മുടെ പ്രൊട്ടക്റ്ററിന് 22 5 20 എന്നിങ്ങനെയുള്ളവയുടെ ഏറ്റവും കുറഞ്ഞ മൂല്യത്തിന്റെ എണ്ണം ഉണ്ടാക്കാൻ കഴിയില്ല അതിനാൽ ആ കോണിനെ വിഭജിക്കുന്നത് ആണ് എല്ലായ്പ്പോഴും എളുപ്പം അതിനാൽ 2 നും നമ്മൾ സമാനമായ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നു ആദ്യം ഒരു ആർക്ക് ഉണ്ടാക്കി അതിനെ വിഭജിക്കുക എന്തായാലും അത് കേന്ദ്രത്തിലൂടെ കടന്നുപോകും ആ രേഖകൾ വിപുലീകരിക്കുക അതുവഴി നമുക്ക് പോയിന്റ് 1 കൂടി ഉണ്ടായിരിക്കും അതുപോലെ നമ്മൾ മറുവശത്ത് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 45° രേഖ വരച്ച് അവയിൽ ചേർക്കുക ഇത് 6 ഭാഗങ്ങളാക്കി രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക അതുപോലെ തുല്യ ഭാഗങ്ങൾ ഉണ്ടാക്കുക 5 6 7 പോയിന്റ് ബി എന്നിവ കണ്ടെത്തുന്നതിന് ഈ രേഖകൾ വിപുലീകരിക്കുക നമ്മൾ ഇത് തുല്യ ഭാഗങ്ങളായി വിഭജിച്ചുകഴിഞ്ഞാൽ സി ആറാം പോയിന്റിൽ ബന്ധിപ്പിക്കുക എസി യിലേക്ക് ലംബ ബൈസെക്ടറുകൾ വരയ്ക്കുക അതിനാൽ എസി യെ സംബന്ധിച്ചിടത്തോളം ലംബ ബൈസെക്ടറും സി 6 ലംബ ബൈസെക്ടറും കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ പുറത്തുള്ള വൃത്തം ബന്ധിപ്പിക്കാൻ കഴിയും അവിടെ നിന്ന് അഷ്ടഭുജം കണക്കാക്കുന്നത് താരതമ്യേന എളുപ്പമാണ് എസി ക്കായി ലംബമായ ബൈസെക്ടറുകൾ നിർമ്മിക്കുന്നതിന് നമ്മൾ ഇരുവശത്തും വിഭജിക്കുന്നു ആ സർക്കിളിന്റെ മധ്യഭാഗം കണ്ടെത്താൻ ഈ പോയിന്റുകളിൽ ചേർക്കുക അതുപോലെ സി 6 ഇത് ഉപയോഗിക്കുന്നു ബി സി B C എന്നിവ ഉപയോഗിച്ച് ലംബമായ ബൈസെക്ടർ നിർമ്മിച്ച് അവയിൽ ചേർക്കണം അതിനാൽ ലംബമായ ബൈസെക്ടറുകളിലൊന്നാണ് ഇത് മറ്റൊന്ന് ഇതാണ് അതിനാൽ ഇവ രണ്ടും ഇവിടെ വിഭജിക്കുന്നു അതിനാൽ ഇതിനെ ഒരു കേന്ദ്രമായി കണ്ടെത്തുക ആ കേന്ദ്രത്തിന് O എന്ന് പേര് നൽകുക ഇപ്പോൾ നമ്മൾ ഒരു അഷ്ടഭുജം നിർമ്മിക്കാൻ പോകുന്നു അത് എല്ലായ്പ്പോഴും ബി എ സി 6 B A C 6 പോയിന്റുകൾ എന്നിവയെ സർകംസ്ക്രൈബ് ചെയ്തു ഇരിക്കുന്നു അതിനാൽ ഞാൻ സി യിൽ നിന്ന് പോയിന്റുകൾ അവിടെയെല്ലാം വ്യാപിപ്പിക്കാൻ പോകുന്നു അത് ആ പോയിന്ററുകളെ വിഭജിക്കും നമ്മൾ അതിനെ എച്ച് എന്ന് വിളിക്കും എ എച്ച് A H എന്നിവ ചേർക്കുക അതുപോലെ പോയിന്റ് സി മുതൽ വിഭജിക്കാൻ പോകുന്നിടത്ത് ഒരു രേഖ നീട്ടുക നമ്മൾ അതിനെ ജി എന്ന് വിളിക്കുന്നു അതിൽ ചേർത്തിട്ടു അതിനെ പോയിന്റ് എഫ് എന്ന് വിളിക്കുക എച്ച് ജി H G എന്നിവ ചേർക്കുക ഇപ്പോൾ സി യിൽ നിന്ന് ഒരു രേഖ നീട്ടുക ഇതിനെ ഇ എന്ന് വിളിക്കുന്നു എഫ് ഇ തമ്മിൽ ചേർക്കുക അതുപോലെ സി യിൽ നിന്ന് ഇത് എഡി യുമായി വിഭജിക്കാൻ പോകുന്നു ഡി ഇ D E എന്നിവ ചേർക്കുക 6 ഡി 6 D എന്നിവ ചേർക്കുക നമ്മൾ ഒരു അഷ്ടഭുജം നിർമ്മിക്കുന്ന രീതിയാണിത് അതിനാൽ 9 ാം പ്രഭാഷണത്തിൽ ഒരു വൃത്തത്തിലേക്ക് ഒരു നോർമലും ടാൻജെന്റും എങ്ങനെ വരയ്ക്കാമെന്നും ഒരു ബാഹ്യ പോയിന്റിൽ നിന്ന് ഒരു വൃത്തത്തിലേക്ക് ഒരു ടാൻജെന്റ് എങ്ങനെ വരയ്ക്കാമെന്നും ഒരു സാധാരണ പോളിഗോൺ എങ്ങനെ നിർമ്മിക്കാമെന്നും നമ്മൾ പഠിച്ചു ഉദാഹരണത്തിന് ഒരു അഷ്ടഭുജം ഒരു വൃത്തത്തെ എങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്യുന്നു എന്ന് കണ്ടു പ്രഭാഷണം 10 ൽ നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങൾ പരിശീലിക്കും